ഹലോ പ്രവർത്തന ജീവശാസ്ത്രത്തിൻ്റെ മെക്കാനോബയോളജിയുടെ ആമുഖ കോഴ്സിന്റെ അവസാന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മെക്കനോബയോളജിയിലെ വിവിധ ഉപകരണങ്ങളെക്കുറിച്ച് അവസാന രണ്ടു പ്രഭാഷണങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഹൈഡ്രോജൽസ് എ എം അസ്സയ് കളായ ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ ലേസർ അബ്ളേഷൻ അല്ലെങ്കിൽ ട്രിപ്സിൻ ഡീഅഥീഷൻ Hydrogels AFM traction force microscopy or laser ablation or trypsin deadhesion പോലുള്ള കോശത്തിന്റെ കൺട്രാക്റ്റിലിറ്റി തെളിയിക്കുന്ന പരിശോധനകൾ അല്ലെങ്കിൽ എ എം പോലെ സാമ്പിളുകളുടെ കാഠിന്യം ഇമേജിംഗ് ടോപ്പോഗ്രാഫി അഥീഷൻ മെഷർമെന്റുകൾ തുടങ്ങിയവ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അവസാന ക്ലാസ്സിൽ സോഫ്റ്റ് ലിത്തോഗ്രാഫിയെക്കുറിച്ചാണ് സംസാരിച്ചത് ഇത് ഉപയോഗിച്ച് കോശത്തിന്റെ ആകൃതി നിയന്ത്രിക്കാം അല്ലെങ്കിൽ ഇതിനായി മൈക്രോ പില്ലറുകൾ ഉപയോഗിക്കാം ടിഎഫ്എമ്മിൽ മറ്റൊരു രീതിയിൽ ട്രാക്ഷൻ സൃഷ്ടിക്കാൻ വേണ്ടി മൈക്രോ പില്ലറുകൾ നിർമ്മിക്കാം കോശ ആകൃതി അല്ലെങ്കിൽ സെൽ സ്പ്രെഡിംഗ് ഏരിയയെ സെൽ സ്പ്രെഡിംഗിന്റെ വ്യാപ്തി അനുസരിച്ച് അപ്പോപ്റ്റോസിസുമായി ബന്ധിപ്പിക്കുന്ന ഒരു പഠനത്തെക്കുറിച്ച് ഞാൻ ഹ്രസ്വമായി സംസാരിച്ചു അതുപോലെ തന്മാത്രാപ്രക്രിയകളെക്കുറിച്ച് സൂക്ഷ്മാന്വേഷണം നടത്താൻ മൈക്രോ ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റ് നിരവധി പഠനങ്ങളുണ്ട് സെൽ ബയോളജി ജേണലിൽ ഡോയൽ ഉം മറ്റുള്ളവരും പ്രസിദ്ധീകരിച്ച പഠനം ഫൈബ്രില്ലർ പ്രതലങ്ങളിൽ 1 ഡി മൈഗ്രേഷൻ 3 ഡിക്ക് സമാനമാണെന്ന് തെളിയിച്ചു ഫൈബ്രിൽ മാട്രിക്സും കൊളാജൻ മാട്രിക്സും സമാനമാണ് അവർ അത് എങ്ങനെയാണ് ചെയ്തത് ഡബ്ലിയു വീതിയിൽ വ്യത്യാസമുള്ള ഈ വരികളുടെ പാറ്റേണുകൾ അവർ ട്രാക്കു ചെയ്തു ഈ ലൈനുകൾക്ക് മുകളിൽ കോശങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നു ഒപ്പം കോശങ്ങളുടെ മൈഗ്രേഷൻ വീതിയുടെ പ്രവർത്തനമായി ട്രാക്കു ചെയ്തു വീതിയുടെ പ്രവർത്തനം നിരീക്ഷിക്കപ്പെട്ടപ്പോൾ വീതി കൂടുന്നതിനനുസരിച്ച് മൈഗ്രേഷന്റെ വ്യാപ്തിയിൽ കുറവുണ്ടായതായി കണ്ടെത്തി 1 D വരികളിൽ വീതി കൂടുന്നതിനനുസരിച്ച് വേഗത കുറഞ്ഞു ഈ പഠനം ഇനി ചർച്ചചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഫൈബ്രില്ലർ മെട്രിക്സിൽ കോശങ്ങൾ എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വിവരം നൽകുന്ന ഈ പ്രബന്ധം ഞാൻ നിങ്ങൾക്ക് റഫർ ചെയ്യുന്നു ഇന്ന് ഞാൻ മെക്കാനൊബയോളജിയിൽ മറ്റൊരു ഉപകരണം അവതരിപ്പിക്കുന്നു ഇതിനെ ഫ്രെറ്റ് എന്ന് വിളിക്കുന്നു എന്തിനുവേണ്ടിയാണ് ഫ്രെറ്റ് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ പ്രതിപ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഫ്രെറ്റ് ഉപയോഗിക്കുന്നത് അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ് പ്രോട്ടീൻ എ പ്രോട്ടീൻ ബി യുമായി എങ്ങനെ ബൈൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു റിസപ്റ്റർ ലിഗാണ്ട് പ്രതിപ്രവർത്തനം നിങ്ങൾ എങ്ങനെ കാണിക്കും ഇമേജിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ കോ ലോക്കലൈസേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും എന്നാൽ ഇത് ഇന്ററാക്ഷനെക്കുറിച്ച് പറയാൻ പര്യാപ്തമല്ല ഉദാഹരണമായി ഫോക്കൽ അഥീഷനുകളിൽ 100 ൽ കൂടുതൽ പ്രോട്ടീനുകൾ ലോക്കലൈസ് ചെയ്തിട്ടുണ്ട് ഈ പ്രോട്ടീനുകളെല്ലാം പരസ്പരം ഇടപഴകുന്നു എന്നല്ല ഇതിൻറെ അർത്ഥം അതിനാൽ രണ്ടു പ്രോട്ടീനുകളുടെ പ്രതിപ്രവർത്തനം കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗം കോ ഇമ്മ്യൂണോ പ്രസിപിറ്റേഷൻ ആണ് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നു വെച്ചാൽ സെൽ ലൈസേറ്റ് ശേഖരിച്ച് ഒരു ലൈസേറ്റിനെതിരെയുള്ള ആന്റിബോഡി വെച്ച് പൊതിഞ്ഞ മുത്തുകളുമായി ഇൻകുബേറ്റ് ചെയ്യുന്നു എ യും ബി യും A B തമ്മിലുള്ള പ്രതിപ്രവർത്തനം നമ്മൾ തെളിയിക്കുകയാണ് പരസ്പരം ബന്ധിച്ചിരിക്കുന്ന എ ബി പ്രോട്ടീനുകൾ A B proteins കൂടിച്ചേർന്ന് പ്രോട്ടീൻ അഗ്രഗേറ്റുകൾ ഈ മുത്തുകളിൽ ഉണ്ടാവുന്നു ഈ പ്രോട്ടീൻ അഗ്രഗേറ്റുകളെയെല്ലാം ശേഖരിച്ചതിനു ശേഷം ശുദ്ധീകരിക്കുക ഒരു ജെല്ലിൽ കൂടി കടത്തിവിട്ട് ബി യുടെ ആന്റിബോഡി ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യിക്കുമ്പോൾ ഒരു ബാൻഡ് ലഭിക്കും ഇതിൽ നിന്ന് പ്രോട്ടീൻ ഇൻററാക്ഷൻ മനസ്സിലാക്കാം അതിനാൽ ഇത് തീർച്ചയായും ഉപയോഗപ്രദമായ സാങ്കേതികതയാണ് എന്നാൽ ഈ സാങ്കേതികത ചലനാത്മക ഇടപെടലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നില്ല കാരണം നിങ്ങൾ ഏത് സമയത്താണ് ലൈസേറ്റ് ശേഖരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതിൻറെ ഫലം എന്നാൽ ഈ ഇടപെടൽ ചലനാത്മകമാണെങ്കിൽ സമയത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചോ സ്പേഷ്യൽ റെഗുലേഷനെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ലഭിക്കില്ല തന്മൂലം ഇതിലൂടെ ശരാശരി വിവരം മാത്രമേ ലഭിക്കൂ ഫ്ലൂറസെൻസ് റെസൊണൻസ് എനർജി ട്രാൻസ്ഫർ സാങ്കേതികത ഉപയോഗപ്രദമാകുന്നത് ഇവിടെയാണ് ഫ്ലൂറസെൻസ് റെസൊണൻസ് എനർജി ട്രാൻസ്ഫറിൻറെ ഹ്രസ്വ രൂപമാണ് ഫ്രെറ്റ് ഫ്രെറ്റിൽ എക്സൈറ്റഡ് ഡോണർ ഫ്ലൂറോഫോറിൽ നിന്ന് അടുത്തുള്ള അക്സെപ്റ്റർ ഫ്ലൂറോഫോറിലേക്ക് ഊർജ്ജം പ്രവഹിക്കുന്നു സാധാരണയായി ഉപയോഗിക്കുന്നത് സിഎഫ്പി സിയൻ ഫ്ലൂറസെന്റ് പ്രോട്ടീൻ വൈഎഫ്പി യെല്ലോ ഫ്ലൂറസെന്റ് പ്രോട്ടീൻ എന്നിവയാണ് ഇവയെല്ലാം പച്ച ഫ്ലൂറസെന്റ് പ്രോട്ടീന്റെ വർണ്ണ വകഭേദങ്ങളാണ് ഈ 2 പ്രോട്ടീനുകളാണ് നിങ്ങൾക്കുള്ളത് സിഎഫ്പി യും വൈഎഫ്പി യും CFP YFP ഈ 2 പ്രോട്ടീനുകളും ഫ്ലൂറസെന്റാണ് സിഎഫ്പി യുടെ എക്സൈറ്റേഷൻ 440 നാനോമീറ്ററും എമിഷൻ 480 നാനോമീറ്ററുമാണ് എന്നാൽ വൈഎഫ്പിയുടെ എക്സൈറ്റേഷൻ പീക്ക് 510 നാനോമീറ്ററാണ് കൂടാതെ എമിഷൻ 545 നാനോമീറ്ററുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും സിഎഫ്പിയുടെ എക്സൈറ്റഡ് അവസ്ഥയിൽ എക്സൈറ്റഡ് ഇലക്ട്രോണുകളുടെ ആന്ദോളനം വഴി ഒരു ഊർജ്ജമണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നു ഈ ഊർജ്ജം ഉപയോഗിച്ച് വൈഎഫ്പി യും എക്സൈറ്റഡാക്കാം പക്ഷേ ദൂരം വളരെ കുറവായിരിക്കണം ദൂരം എത്ര കുറവാകുന്നോ അതനുസരിച്ച് ഊർജ്ജ കൈമാറ്റത്തിന്റെ കാര്യക്ഷമത r6 ആയി കുറയുന്നു ഇതിനർത്ഥം ഈ രണ്ട് ഫ്ലൂറോഫോറുകൾ തമ്മിലുള്ള വേർതിരിക്കൽ ആർ ആണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം r6 ആയി കുറയുന്നു അതിനാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കുറയുന്ന ഫ്രെറ്റ് കാര്യക്ഷമതയുണ്ട് 60 അല്ലെങ്കിൽ 70 ആങ്സ്ട്രോമിനപ്പുറം ഫ്രെറ്റ് കാര്യക്ഷമത പൂജ്യമാണെന്ന് പറയാം അടിസ്ഥാനപരമായി തറയിൽ നിന്ന് തറയിലേക്കുള്ള ദൂരം 70 ആംഗ്സ്ട്രോമുകളിൽ കുറവായിരിക്കുമ്പോൾ മാത്രമാണ് ഈ രീതി ഉപയോഗപ്രദം അതിനാൽ ഫ്രെറ്റ് ടെക്നിക്കിൽ എന്താണ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് പ്രോട്ടീനുകളുണ്ട് സിഎഫ്പിയിലേക്ക് ടാഗുചെയ്തിരിക്കുന്ന പ്രോട്ടീൻ എ യും വൈഎഫ്പിയിലേക്ക് ടാഗുചെയ്തിരിക്കുന്ന പ്രോട്ടീൻ ബി യും ഫ്രെറ്റിൽ നിങ്ങൾ 440 നാനോമീറ്ററിൽ എക്സൈറ്റു ചെയ്യിക്കുകയും 545 നാനോമീറ്ററിലെ എമിഷൻ സ്പെക്ട്ര ശേഖരിക്കുകയും ചെയ്യുന്നു ഇത് വൈഎഫ്പി യുടെ എമിഷനും ഇത് ജി എഫ് പി യുടെ എക്സൈറ്റേഷനുമാണ് അതിനാൽ ഈ രണ്ട് തന്മാത്രകളും 60 70 നാനോമീറ്റർ ആംഗ്സ്ട്രോമുകളുടെ 60 - 70 nanometer angstroms ക്രമത്തിൽ വളരെ അടുത്തായിരിക്കുമ്പോൾ ഫ്രെറ്റ് കാര്യക്ഷമത നല്ലതായിരിക്കും റഫർ സമയം 1123 അവ വളരെ അടുത്താണെങ്കിൽ ഈ രണ്ടു പ്രോട്ടീനുകളും ശരിക്കും പ്രതിപ്രവർത്തിക്കുന്നുവെന്ന് കൃത്യമായി അനുമാനിക്കാം മെക്കാനൊബയോളജി പഠനത്തിനായി ഫ്രെറ്റിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ അടുത്തതായി പറയും ഇക്കാര്യത്തിൽ ഗ്രാസ്ഹോഫിന്റെയും മറ്റുള്ളവരുടെയും ഈ പ്രത്യേക പ്രബന്ധം ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നേച്ചറിൽ 2010ൽ പ്രസിദ്ധീകരിച്ച പേപ്പർ ആണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വിൻകുലിൻ എന്ന പ്രോട്ടീനെക്കുറിച്ച് അറിയാം വിൻകുലിൻ ഒരു എഫ്എ പ്രോട്ടീൻ അഥവ ഫോക്കൽ അഥീഷൻ പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻറെ ഘടന നോക്കിയാൽ ഒരു ഹെഡ് ഡൊമെയ്നും ടെയിൽ ഡൊമെയ്നും head domain and tail domain ഉണ്ട് അവ ഒരു ഫ്ലെക്സിബിൾ ലിങ്കർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ഹെഡ് ഡൊമെയ്നിൽ ടാലിൻ ആൽഫ ആക്റ്റിനിൻ talin alpha actinin പോലുള്ള ബൈൻഡിംഗ് പ്രോട്ടീനുകളുണ്ട് കൂടാതെ ടെയിൽ ഡൊമെയ്നിൽ ബൈൻഡിംഗ് പങ്കാളിയായി ആക്റ്റിൻ ഉണ്ട് ഈ ഹെഡ് ഡൊമെയ്നും ടെയിൽ ഡൊമെയ്നും head domain and tail domain എടുക്കുമ്പോൾ വി എച്ച് ഹെഡ് ഡൊമെയ്നുമായും വി ടി ടെയിൽ ഡൊമെയ്നുമായും യോജിച്ചിരിക്കുന്നു ഇവ ഒരു ഫ്ലെക്സിബിൾ ലിങ്കർ ഉപയോഗിച്ച് വേർതിരിക്കുന്നു വിഎച്ച് ടാലിനുമായി ബന്ധിപ്പിക്കുമ്പോൾ വിൻകുലിൻ ഫോക്കൽ അഥീഷനുകളിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞതുപോലെ വിടി ആക്റ്റിൻ പാക്സിലിൻ എന്നിവയുമായി ബന്ധിച്ചിരിക്കുന്നു ഫോക്കലൈസേഷനുകളിൽ വിൻകുലിൻ പ്രാദേശികവൽക്കരിക്കുന്നതിന്റെ ഒരു നിർണ്ണായക ഘടകമാണ് ബലം വിൻകുലിൻ അപര്യാപ്തതയുള്ള കോശങ്ങൾ തെറ്റായ വ്യാപനവും മൈഗ്രേഷനും കാണിക്കുന്നു നിയന്ത്രണകോശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൻകുലിൻ അപര്യാപ്തതയുള്ള കോശങ്ങൾ മൃദുവായതിനാൽ അവ കുറഞ്ഞ അളവിൽ ശക്തി പ്രയോഗിക്കുന്നു വിൻകുലിൻ മോളിക്കുലാർ ക്ലച്ചിന്റെ ഒരു പ്രധാന ഭാഗമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ വിൻകുലിൻ ഉയർന്ന ശക്തികളുള്ള പ്രദേശങ്ങളിൽ കോലോക്കലൈസ് ചെയ്യപ്പെടുന്നു ഇത് എഡ്ജ് പ്രൊട്രുഷന് കാരണമാകുന്നു ഇവയെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ വിൻകുലിൻ അഥീഷനുകളെ ശക്തിപ്പെടുത്തുന്നതിൽ പങ്കാളികളാകുന്നു ശക്തി വർദ്ധിക്കുകയാണെങ്കിൽ വിൻകുലിൻ റിക്രൂട്ട്മെന്റും വർദ്ധിക്കുന്നു അതിനാൽ ഓരോ പ്രദേശത്തിന്റെയും ബലം സ്ഥിരമായിരിക്കുന്ന അവസ്ഥയിൽ ഫോക്കൽ അഥീഷനുകൾ വളരും നമ്മൾ ചർച്ചചെയ്ത ആ പേപ്പറിൽ നിന്ന് മനസിലായത് ശരാശരി 5 5 നാനോ ന്യൂട്ടൺ ബലത്തിന് ഒരു മൈക്രോൺ സ്ക്വയർ ഫോക്കൽ അഥീഷന്റെ വളർച്ച ഉണ്ടെന്നാണ് അതിനാൽ വിൻകുലിൻ ബലത്തിന് വിധേയമാക്കുമ്പോൾ അതിന്റെ ഘടനയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് മനസിലാക്കാൻ അവർ ആഗ്രഹിച്ചു ഇതിനുവേണ്ടി അവർ ടെൻഷൻ സെൻസർ എന്ന് പേരിട്ട ഒരു കൺസ്ട്രക്റ്റ് ഉപയോഗിച്ചു എന്താണ് ടെൻഷൻ സെൻസർ ഡിസൈൻ നിങ്ങൾക്ക് വിൻകുലിൻറെ ടെയിൽ ഡൊമെയൻ വി ടി യും tail domain Vt ഹെഡ് ഡൊമെയൻ വിഎച്ച് ഉം head domain Vh തമ്മിലുള്ള ഒരു ഫ്രെറ്റ് ജോഡി ഉണ്ട് അവ ഒരു ഇലാസ്റ്റിക് ലിങ്കർ ഉപയോഗിച്ച് ലിങ്കു ചെയ്യുന്നു ഇതാണ് ടെയിൽ ഡൊമെയ്ൻ ഹെഡ് ഇതിനെ ഈ കൺസ്ട്രക്റ്റർ ടെൻഷൻ സെൻസറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിനിടയിൽ ഒരു ഇലാസ്റ്റിക് ലിങ്കർ കൂടി ഉണ്ട് ഈ കംപ്രഷനിൽ നിങ്ങൾ ഈ ഇലാസ്റ്റിക് ഡൊമെയ്ൻ വലിച്ചുനീട്ടുമ്പോൾ ഫ്രെറ്റ് സിഗ്നൽ കുറയുന്നു ടെൻഷൻ സെൻസർ രൂപകൽപ്പനയുടെ ആശയമാണിത് കോശശക്തികളോടുള്ള വിൻകുലിന്റെ ഈ പ്രതികരണങ്ങൾ വിലയിരുത്താൻ അവർ ആഗ്രഹിച്ചു അതിനാൽ അവർ ആദ്യം ഒരു വിൻകുലിൻ കോശം സൃഷ്ടിച്ചു ഈ കോശത്തിന് സ്വന്തമായ വിൻകുലിൻ ഇല്ല തുടർന്ന് അവർ വിൻകുലിൻ ടെൻഷൻ സെൻസർ കൺസ്ട്രക്റ്റ് ഉപയോഗിച്ച് കോശത്തെ ട്രാൻസ്ഫെക്ട് ചെയ്തു ഈ കോശങ്ങളെ പ്ലേറ്റ് ചെയ്തതിനുശേഷം അവർ ഫ്രെറ്റ് ഇൻഡെക്സ് അഥവാ ഫ്രെറ്റ് കാര്യക്ഷമത നോക്കി പോളിലൈസിനിൽ കോശങ്ങൾ പ്ലേറ്റ് ചെയ്തപ്പോൾ ഫ്രെറ്റ് ഇൻഡെക്സ് കൂടി ഫൈബ്രോനെക്റ്റിനിൽ പ്ലേറ്റ് ചെയ്തപ്പോൾ ഫ്രെറ്റ് ഇൻഡെക്സ് കുറഞ്ഞു ഇത് ഒരു വലിയ കാര്യമായിരുന്നു ഫൈബ്രോനെക്റ്റിനിൽ കോശങ്ങൾ വ്യാപിച്ചു ഈ ഫലങ്ങൾ സൂചിപ്പിച്ചതെന്തെന്നാൽ കോശങ്ങൾ ഒരിക്കൽ വ്യാപിച്ചുകഴിഞ്ഞാൽ അവ ട്രാക്ഷൻ ഫോഴ്സുകളും മറ്റും പ്രയോഗിക്കും അത് ഫ്രെറ്റ് ഇൻഡെക്സിൽ കുറവുണ്ടാക്കും പോളിലൈസിൻ പ്രതലങ്ങളിൽ കോശങ്ങൾ കൂടുതൽ വൃത്താകൃതിയിലുള്ളതും ഇതുമായി പൊരുത്തപ്പെടുന്നതുമായിരുന്നു കൂടാതെ ഫ്രെറ്റ് ഇൻഡെക്സ് വളരെ കൂടുതലായിരുന്നു അതിനാൽ കോശങ്ങളുടെ ഫ്ലൂറെസെന്റ് ലൈഫ് ടൈം ട്രാക്കു ചെയ്യാൻ കഴിയും അവർ ഇതിന്റെ ഫ്ലൂറസെൻസ് ലൈഫ് ടൈം ട്രാക്കു ചെയ്ത് കണ്ടെത്തി ടെൻഷൻ സെൻസറിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കൽ അഥീഷനുകളിൽ ലൈഫ് ടൈം എത്രത്തോളം നിലനിൽക്കുന്നുവെന്നത് ഒരു കൺട്രോൾ കൺസ്ട്രക്റ്റുമായി അതായത് വിൻ ടിഎൽ കൺസ്ട്രക്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ദൈർഘ്യമേറിയ ലൈഫ് ടൈമാണ് കിട്ടുന്നത് വിൻ ടിഎൽ കൺസ്ട്രക്റ്റിൽ ടെയിൽ ഡൊമെയ്ൻ മാത്രമാണ് ഫ്ലൂറസെന്റ് കൺസ്ട്രക്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇസിഎം പൂശിയ സബ്സ്ട്രേറ്റുകളിൽ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ വിൻകുലിൻ സമ്മർദ്ദത്തിലാണെന്നതിന്റെ ആദ്യ വിശദീകരണമാണിത് അടുത്തതായി ഫോക്കൽ അഥീഷനുകളിലേക്കുള്ള വിൻകുലിൻ റിക്രൂട്ട്മെന്റ് ബലത്തെ ആശ്രയിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നതാണ് റിക്രൂട്ട്മെന്റിന് ഫോഴ്സ് ട്രാൻസ്മിഷനുമായി പരസ്പര ബന്ധമുണ്ടോയെന്നറിയാൻ അവർ കോശങ്ങളെ അവയുടെ സങ്കോചത്തിൽ വ്യതിയാനം വരുത്തുന്ന രണ്ട് മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്തു ഒന്ന് Y27362 ആണ് ഇത് റോക്ക് ഇൻഹിബിറ്ററാണ് കൂടാതെ അവർ മയോസിൻ IIA നോക്ക്ഡൌൺ കോശങ്ങളും ഉപയോഗിച്ചു അതിനാൽ ഈ രണ്ട് ട്രീറ്റ്മെന്റുകളിലും സങ്കോചം കുറയും സങ്കോചം കുറയുകയാണെങ്കിൽ അഥീഷനുകളിൽ ശക്തിയും കുറയുന്നു ഈ ആശയത്തിന് അനുസൃതമായി അവർ ഫ്രെറ്റ് സൂചിക ട്രാക്കു ചെയ്തു നിയന്ത്രിത സാഹചര്യങ്ങളിൽ ടെൻഷൻ സെൻസർ കൺസ്ട്രക്റ്റിൻറെ ശരാശരി ഫ്രെറ്റ് സൂചികയാണിത് എന്നാൽ IIA അല്ലെങ്കിൽ Y27632 കൊണ്ട് നോക്ക് ഡൌൺ ചെയ്തപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും ഫ്രെറ്റ് സൂചിക ഉയർന്നു ഫ്രെറ്റ് സൂചിക മുകളിലേക്ക് പോയി എന്നതിനർത്ഥം ഇലാസ്റ്റിക് ലിങ്കറിന്റെ വലിച്ചുനീട്ടലിന്റെ വ്യാപ്തി കുറയുന്നു എന്നാണ് ശക്തികളും അഥീഷൻ സമയത്തെ ലോക്കലൈസേഷനും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇത് കാണിക്കുന്നു സെൽ മൈഗ്രേഷൻ സമയത്ത് വിൻകുലിൻ ലോക്കലൈസേഷൻ അല്ലെങ്കിൽ വിൻകുലിനിലെ പിരിമുറുക്കം എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് ചോദിക്കുന്നതിൻറെ വിശദീകരണമാണിത് ഈ ആവശ്യത്തിനായി കോശത്തിന്റെ ഉന്തിനിൽക്കുന്ന ഭാഗത്തുനിന്നും ഉന്തിനിൽക്കുന്ന അഥീഷനുകളിൽ നിന്നും പിൻവലിഞ്ഞിരിക്കുന്ന അഥീഷനുകളിൽ നിന്നും അവർ ഫ്രറ്റ് സിഗ്നൽ ട്രാക്കു ചെയ്തു മോളിക്യൂലാർ ക്ലച്ചിൽ ആക്റ്റിൻ വിധേയമായ പ്രൊട്രുഷൻ ഫോഴ്സുകൾ കോശം ചെലുത്തുമ്പോൾ ഈ ഫോക്കൽ കോംപ്ലക്സുകളുടെ രൂപീകരണം ആരംഭിക്കുന്നുവെന്നും ഇത് എഡ്ജിനു കാരണമാകുന്നുവെന്നും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ട്രെയ്ലിങ് എഡ്ജിൽ ഈ അഥീഷനുകൾ ഉണ്ട് പിൻഭാഗത്തു നിന്നുള്ള സങ്കോച ശക്തികൾ കാരണം ഈ അഥീഷനുകൾ തകരും പ്രൊട്രൂഡിങ് എഡ്ജിലെയും റിട്രാക്ഷൻ എഡ്ജിലെയും ഫ്രെറ്റ് സിഗ്നൽ താരതമ്യപ്പെടുത്തുമ്പോൾ പ്രൊട്രൂഡിങ് എഡ്ജിലെ ഫ്രെറ്റ് ഇൻഡെക്സ് റിട്രാക്ഷൻ എഡ്ജിലെതിൽ നിന്ന് വളരെ കുറവാണെന്ന് അവർ കണ്ടെത്തി ഉയർന്ന ഫ്രെറ്റ് സൂചിക എന്നാൽ താഴ്ന്ന ശക്തിയാണെന്ന് ഇത് കാണിക്കുന്നു വളരെ വിശദമായി നോക്കിയാൽ ഫ്രെറ്റ് ഇൻഡെക്സ് ഫോക്കൽ അഥീഷൻ വലുപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ ട്രാക്ക് ചെയ്തു പ്രൊട്രൂഡിങ് എഡ്ജിൽ അവർക്ക് 2 അക്ഷങ്ങൾ കിട്ടി ഒന്ന് ഫ്രെറ്റ് എഫിഷ്യൻസിയും മറ്റൊന്ന് ഫോക്കൽ അഥീഷൻ വലുപ്പവുമാണ് അതിനാൽ ഫ്രെറ്റ് ഇൻഡെക്സ് വർദ്ധിക്കുകയാണെങ്കിൽ ഫോക്കൽ അഥീഷൻ വലുപ്പവും വർദ്ധിക്കുന്നുവെന്ന് സമയത്തിന്റെ പ്രവർത്തനമായി അവർ കണ്ടെത്തി ഇത് പ്രൊട്രൂഡിങ് എഡ്ജിലായിരുന്നു ഇത് പോസിറ്റീവ് കോറിലേഷനാണ് കാണിച്ചത് മറുവശത്ത് ഫ്രെറ്റ് ഇൻഡെക്സ് വർദ്ധിക്കുമ്പോൾ ഫോക്കൽ അഥീഷൻ വലുപ്പം കുറയുന്നതായി കണ്ടെത്തി വിൻകുലിൻ റിക്രൂട്ട്മെന്റും ഫോഴ്സ് ബിയറിങ്ങും രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു കോശത്തിന്റെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇത് ഒരു പ്രധാന വ്യത്യാസമുണ്ടാക്കുന്നു അതിനാൽ ഫ്രെറ്റിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ നമ്മൾ വിവിധ പ്രബന്ധങ്ങൾ ചർച്ചചെയ്തു കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങൾ ചെയ്യേണ്ട ചില വായനാ ചുമതലകൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി പെൽഹാം വാങ് പേപ്പർ വായിക്കുക ഇത് കാഠിന്യത്തെയും വ്യാപനത്തെയും ബന്ധിപ്പിക്കുന്നു ഇംഗ്ളറും മറ്റുള്ളവരും ചേർന്നെഴുതിയ ബയോഫിസിക്കൽ പേപ്പറിൽ കോശവ്യാപനത്തിൽ ഇസിഎം കാഠിന്യത്തിന്റെയും ലിഗാണ്ട് സാന്ദ്രതയുടെയും കൂട്ടായ സ്വാധീനം കാണിക്കുന്നു ലോ യും മറ്റുള്ളവരും ചേർന്നെഴുതിയ പേപ്പർ ഇതിൽ വാങും ഉണ്ട് ഇത് ഡ്യുറോടാക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ബയോമെക്കാനിക്സ് ജേണലിൽ 2000 ത്തിലാണ് പ്രസിദ്ധീകരിച്ചത് മെക്കാനൊബയോളജി പഠനത്തിന് ഒപ്റ്റിക്സും മെക്കാനൊബയോളജിക്കൽ ഉപകരണങ്ങളും എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യുന്ന ഒരു അവലോകന പേപ്പറാണിത് സങ്കോചം കണ്ടെത്താനുള്ള ഒരു പരിശോധനയായി ട്രിപ്സിൻ ഡി അഥീഷനെ അവതരിപ്പിക്കുന്ന ഒരു പേപ്പറാണിത് കൺട്രാക്റ്റൈൽ മെക്കാനിക്സ് കണ്ടെത്തുന്നതിനായി ലേസർ അബ്ളേഷനെ അവതരിപ്പിച്ച 2005 ലെ പേപ്പറാണിത് ഈ പേപ്പറിൽ വിൻകുലിൻ ടെൻഷൻ സെൻസറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കോഴ്സ് അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഈ കോഴ്സ് ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടാതെ നിരവധി പേപ്പറുകൾ അല്ലെങ്കിൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന ഒന്നോ അതിലധികമോ പേപ്പറുകൾ വായിക്കാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വായനാ അസൈൻമെന്റിനായി നിർദ്ദേശിച്ച പേപ്പറുകളിൽ മറ്റ് നിരവധി പേപ്പറുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഈ പേപ്പറുകളിൽ കോശപെരുമാറ്റത്തിന് പ്രസക്തമായ മെക്കാനൊബയോളജിക്കൽ സന്ദർഭങ്ങളുണ്ട്